ഹൈസൻബെർഗ് ക്വാണ്ടം മെക്കാനിക്സ് ലൂടെ കൈനമാറ്റിക് ക്വാണ്ടിറ്റി കൾ എങ്ങനെ രൂപീകരിച്ചു എന്ന് ഇതിനു മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഉദാഹരണമായി നമ്മൾ പറഞ്ഞു ആംപ്ലിട്യൂഡ് Cn n α ഫ്രീക്വൻസി n n α ആംപ്ലിട്യൂഡിന്റെ ടൈമിനനുസരിച്ചുള്ള മാറ്റം കാണിക്കുന്ന പദമായ einn αt എന്നിവ ഉപയോഗിച്ച് x എന്ന ക്വാണ്ടിറ്റിയെ പ്രതിനിധീകരിക്കാമെന്ന് മറ്റൊരു ക്വാണ്ടിറ്റിയായ y യെ Dnn α nn α എന്നിവ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം അവിടെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം x y ≠ y x മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ x y y x ആവണമെന്നില്ല എന്നതാണ് x യെ x കൊണ്ട് ഗുണിച്ച റിസൾട്ട് തന്നെ ആയിരിക്കും ഇതിന്റെ സ്ഥാനം പരസ്പരം മാറ്റി ചെയ്താലും കിട്ടുന്നത് എന്നാൽ ഇത് ഗുണിക്കുന്ന രീതി മാറിയിരിക്കയാണ് ഇപ്പോൾ ഇതിനായി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ രീതിയാണ് അവലംബിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം C ഇവ ഉപയോഗിച്ച് ക്വാണ്ടം കണ്ടീഷൻ കണ്ടുപിടിക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ലേക്ക് തിരിച്ച് പോവുകയാണ് അതിനു മുൻപായി നമുക്ക് ക്ലാസിക്കൽ ക്വാണ്ടം നിലകളിൽ ഡിഫറെൻസിയേഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം നമ്മൾ അത് സാധാരണയായി ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒന്നുകൂടെ അത് വ്യക്തമായി കാണിക്കുകയാണ് ക്ലാസിക്കൽ തിയറി അനുസരിച്ച് ക്വാണ്ടം നമ്പർ n വളരെ വളരെ വലുതാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ഡിഫറെൻസിയേഷൻ ചെയ്യുമ്പോൾ അതായത് d Ed n കണ്ടാൽ ആയിരിക്കും കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലോകത്തിൽ n 1 n ആണ് എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ d Ed n എടുക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ വളരെ ചെറിയ നമ്പർ മാത്രമാണ് വരുന്നത് അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ n വളരെ ചെറുതാണ് അതുകൊണ്ടുതന്നെ ക്ലാസിക്കൽ രീതിയിലുള്ള ഡിഫറെൻസിയേഷൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിഫറെൻസ് ആക്കി മാറ്റേണ്ടതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇവ തമ്മിൽ വേർതിരിക്കുന്നത് ഉദാഹരണത്തിന് ക്ലാസിക്കൽഫിസിക്സിൽ അതായത് n→ ∞ ആകുമ്പോൾ എന്നാൽ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്തിൽ എന്നോ അല്ലെങ്കിൽ എന്നോ എഴുതാം കാരണം ഇവിടെ n 1 ആണ് ഇതാണ് ക്ലാസ്സിക്കലിൽ നിന്നും ക്വാണ്ടം ലോകത്തേക്ക് മാറുമ്പോൾ ഉള്ള വ്യത്യാസം അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിഫറെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ddn എന്നതിനുപകരം നമ്മൾ ക്വാണ്ടം നമ്പറുകൾ തമ്മിൽ വ്യത്യാസം ആയിട്ടുള്ള ലെവലുകൾ തമ്മിലുള്ള എനർജി വ്യത്യാസം എടുത്തു അടുത്തതായി നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കയാണ് അതിനാണ് ഞാനിതിവിടെ എഴുതിയിരിക്കുന്നത് അടുത്തതായി ഹൈസെൻബെർഗിന്റെ പേപ്പറിനും മുൻപ് നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടം കണ്ടീഷൻ ഓർത്തു നോക്കൂ ഹൈസെൻബെർഗ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇവിടെ ഇന്റഗ്രൽ ഫോം ഉപയോഗിക്കരുത് എന്നതാണ് കാരണം ആവാം നമുക്ക് ഈ കോൺസ്റ്റന്റ് ഏതാണെന്നറിയില്ല അതുകൊണ്ടുതന്നെ ഇന്റഗ്രലിനെ ഡിഫറെൻഷ്യൽ ഫോമിൽ എഴുതണം അതായത് രണ്ടു വശത്തും n മായി ബന്ധപ്പെടുത്തി ഡെറിവേറ്റീവ് എടുക്കണം അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ലഭിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇതിന്റെ അർഥം ഇതാണ് ഹൈസെൻബെർഗ് ക്വാണ്ടം കണ്ടീഷനിൽ വരുത്തിയ ആദ്യത്തെ മാറ്റം അടുത്തതായി ഇത് C ഇവ ഉപയോഗിച്ച് എങ്ങനെ എഴുതുമെന്ന് നോക്കാം നമുക്കതിനു ശ്രമിക്കാം നമ്മൾ ∮pdx എന്നത് n→ ∞ എന്ന അവസ്ഥയിൽ എടുത്താൽ ഇവിടെ വീണ്ടും നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണ് n→ ∞ എന്ന കണ്ടീഷനിൽ ചില റിസൾട്ട് കണ്ടുപിടിച്ച് അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഷയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹൈസെൻബെർഗ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൽ ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ n→ ∞ എന്ന അവസ്ഥയിൽ ഇതാണ് ഇവിടെ ആക്ഷൻ നമുക്കിതിനെ വിലയിരുത്താം ഇപ്പോഴും ഇത് n→ ∞ എന്ന അവസ്ഥയിൽ തന്നെ ആണ് ഉള്ളത് x എന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം

ഇവിടെ 𝜔n എന്നത് nth ഓർബിറ്റ് ന് അനുബന്ധമായുള്ള ഫ്രീക്വൻസി അപ്പോൾ v2t എന്നത് ഇതിന്റെ ഇന്റഗ്രൽ എടുത്താൽ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഇവിടെ T എന്നത് 2𝜋 𝜔n അതായത് nth ഓർബിറ്റിൽ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയ്ക്കു അനുബന്ധമായുള്ള പീരീഡ് മറ്റുള്ളവയെല്ലാം ഇതിന്റെ ഉയർന്ന ഹാർമോണിക്സ് ആയിരിക്കും ഇതിനർത്ഥം കാരണം α β എന്ന കേസിൽ eiαβt എന്നത് t T ആകുമ്പോഴും t 0 ആകുമ്പോഴും ഒരേ പോലെ ആയിരിക്കും അതായത് T പീരീഡ് ആണെന്നർത്ഥം α β അല്ലെങ്കിൽ β α ആകുമ്പോൾ മാത്രമാണ് eiαβt 1 ആകുന്നത് അതുകൊണ്ടുതന്നെ ഇന്റഗ്രേഷൻ റിസൾട്ട് T ആകുന്നു അപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ꞵ യ്ക്ക് പകരം 𝜶 എന്ന് സബ്സ്റ്റിട്യൂട് ചെയ്താൽ T യും ഇതിലെ ഒരു 𝜔 യും തമ്മിൽ ഗുണിച്ചാൽ 2𝜋 അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ റിസൾട്ട് അപ്പോൾ നേരത്തെയുള്ള ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിട്യൂട് ചെയ്താൽ അടുത്തതായി ഇപ്പോൾ കിട്ടിയ ക്ലാസിക്കൽ റിസൾട്ട് അല്ലെങ്കിൽ n ഇൻഫിനിറ്റി യോടടുക്കുന്നു എന്ന് സങ്കൽപ്പിക്കുന്ന റിസൾട്ട് ക്വാണ്ടം റിസൾട്ടായി മാറ്റണം മാത്രമല്ല എന്ന് കൂടെ എടുക്കണം അപ്പോൾ അടുത്തതായി കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ ഇത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കണം C യും ബാക്കി എല്ലാ പരാമീറ്ററുകളും nth ലെവലിനു ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഇക്വേഷനിലെ ഓരോ നമ്പറും നമുക്ക് വേർതിരിച്ചെഴുതാം ഇവിടെ C എന്നത് Cnn α ആണെന്നും C α എന്നത് C n α n ആണെന്നും നമുക്കറിയാം മാത്രമല്ല C n α n എന്നത് Cn n α ആണ് ഇത് നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടന്നങ്ങോട്ട് ഞാൻ αωnnn α എന്നെടുക്കുകയാണ് ഇതെല്ലം ചേർത്ത് ഇതിനെ വളരെ ശ്രദ്ധാപൂർവം മാറ്റി എഴുതിയാൽ നേരത്തെ നമ്മൾ ddn എന്നതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ അത് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ ddn നമുക്ക് സമ്മേഷന്റെ ഉള്ളിലേക്കെടുക്കാം കാരണം ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ള പദങ്ങളിലാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ddn എന്നത് വ്യത്യാസമായുള്ള ട്രാൻസിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം

ഇവിടെ യുടെ വാല്യൂ ∞ to ∞ ഇതിനെ ക്വാണ്ടം കണ്ടിഷനിലേക്ക് ഒന്നുകൂടെ മാറ്റി എഴുതിയാൽ ഇതിനെ ഒന്ന് കൂടെ മാറ്റിയാൽ അടുത്തതായി ഞാൻ α യ്ക്കു പകരം എടുത്ത് ഇതിലെ രണ്ടാമത്തെ പദം മാറ്റി എഴുതുകയാണ് അതായത് കാരണം നിങ്ങൾക്കറിയാം ആണെന്ന് അതായത് ട്രാൻസിഷൻ n → nβ ആയാലും nβ→ n ആയാലും |C| യിൽ വ്യത്യാസമില്ല ഇപ്പോൾ നമുക്ക് ക്വാണ്ടം കണ്ടീഷൻ ഇങ്ങനെ എഴുതാം നമുക്കിപ്പോൾ C 𝜔 ഇവ ചേർത്തുകൊണ്ടുള്ള ക്വാണ്ടം കണ്ടിഷൻ ലഭിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് C 𝜔 ഇവ കാണുന്നതെങ്ങനെയെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം